നമ്മളുടെ വ്യക്തിത്വം രൂപപ്പെടുത്താൻ സഹായിക്കുന്ന വിവിധ ഘടകങ്ങൾ നമ്മൾ ചർച്ചചെയ്തു പക്ഷേ ചർച്ച ചെയ്തതുപോലെ വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള വ്യത്യസ്ത മനോഭാവമുള്ള ആളുകളെ ജോലിസ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നു അവയെ അതിജീവിക്കാനും വിജയിക്കാനും നാം ചെയ്യേണ്ട നടപടികൾ എന്തൊക്കെയാണ് ഒരാൾക്ക് സാധിക്കുന്ന ഏറ്റവും നല്ല കാര്യം പോസിറ്റീവ് ചിന്തയാണ് അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു തീ സൃഷ്ടിക്കുന്നു അത് നിങ്ങൾക്കായി മാത്രമല്ല നിങ്ങളുടെ ഓർഗനൈസേഷനും കൂടുതൽ മുന്നോട്ട് പോകാനായി സഹായിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് പോസിറ്റീവ് ചിന്ത നമുക്ക് എങ്ങനെ പോസിറ്റീവ് ആകാം എന്ന് നമ്മൾ ചർച്ചചെയ്യാൻ പോകുന്നു നേരത്തെ ചർച്ച ചെയ്തതുപോലെ വ്യത്യസ്ത വ്യക്തിത്വങ്ങളുള്ള വ്യത്യസ്തരായ ആളുകൾ വിശ്വാസങ്ങൾ വ്യത്യസ്ത മനോഭാവങ്ങൾ വ്യത്യസ്ത ചിന്താ രീതികൾ വ്യത്യസ്ത ആശയവിനിമയ ശൈലികൾ മുതലായവ നമ്മൾ കാണുന്നു അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ പോസിറ്റീവ് ആവാൻ സാധിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം വിശകലനം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ശുഭാപ്തിവിശ്വാസിയാണോ അതോ അശുഭാപ്തിവിശ്വാസിയാണോ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണെന്ന് നിർവചിക്കാനും ചർച്ചചെയ്യാനും വരുന്നതിനുമുമ്പ് ഞാൻ നിങ്ങൾക്ക് പോസിറ്റീവ് തിങ്കിംഗ്ങ്ങിനെ കുറിച്ച് ഒരു ചെറിയ ഉദാഹരണം തരാം നമുക്ക് ഒരു ഗ്ലാസിൽ പകുതി വെള്ളം എടുക്കാം ജലനിരപ്പ് പകുതി വരെ മാത്രമാണ് ഗ്ലാസ് പകുതി ശൂന്യമാണെന്ന് ഒരാൾ പറഞ്ഞേക്കാം എന്നാൽ ഗ്ലാസ് പകുതി നിറഞ്ഞതായി മറ്റൊരാൾ പറഞ്ഞേക്കാം ഇത് യഥാർത്ഥത്തിൽ രണ്ട് തരത്തിലുള്ള വ്യക്തികളെ വ്യത്യാസപ്പെടുത്തുന്നു ഗ്ലാസ് പകുതി ശൂന്യമാണെന്ന് പറയുന്നയാൾ യഥാർത്ഥത്തിൽ അശുഭാപ്തിവിശ്വാസിയാണ് എന്നാൽ ഗ്ലാസ് പകുതി നിറഞ്ഞിരിക്കുന്നു എന്നു പറയുന്ന ആൾ ശുഭാപ്തിവിശ്വാസിയാണ് എല്ലായ്പ്പോഴും കാര്യങ്ങളുടെ ഇരുണ്ട വശം നോക്കുന്ന ഒരു വ്യക്തിയാണ് അശുഭാപ്തിവിശ്വാസി അതേസമയം ശുഭാപ്തിവിശ്വാസി എല്ലായ്പ്പോഴും കാര്യങ്ങളുടെ ബ്രൈറ്റ് സൈഡ് നോക്കുന്ന ആളാണ് ഒരു അശുഭാപ്തിവിശ്വാസി എല്ലാത്തിലും നിഷേധാത്മകത കണ്ടെത്തുന്നു ശുഭാപ്തിവിശ്വാസി എല്ലായ്പ്പോഴും അവസരം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അവസരമില്ലാത്തപ്പോൾ പോലും അവസരം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു പോസിറ്റീവ് തിങ്കിംഗ് കാരണമാണ് എന്താണ് ഞങ്ങളെ പോസിറ്റീവ് ആക്കുന്നത് ഒരു പോസിറ്റീവ് വ്യക്തിക്ക് നിരവധി ഗുണങ്ങളുണ്ട് നോ എന്നു പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാനസികാവസ്ഥയെ വിശകലനം ചെയ്യുന്നു എന്നാൽ ഒരു പോസിറ്റീവ് തിങ്ങ്കർ അത് ചെയ്യാൻ കഴിയുമെന്ന് എല്ലായ്പ്പോഴും വിശ്വസിക്കുന്നു പ്രശസ്ത എഴുത്തുകാരനും ചിന്തകനും ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിംഗ് എന്ന പുസ്തകത്തിന്റെ കർത്താവുമായ നോർമൻ വിൻസെന്റ് പീൽ പറയുന്നത് പോസിറ്റീവ് തിങ്കിങ് എന്നത് ഒരു പോസിറ്റീവ് മനോഭാവമാണ് ഓരോരുത്തരും നിർബന്ധമായും നല്ല മനോഭാവം പുലർത്തേണ്ടതാണ് പോസിറ്റീവ് തിങ്കർ കാര്യങ്ങൾ ഉടൻ മെച്ചപ്പെടുമെന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തോടെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മറികടക്കുകയും ചെയ്യുന്നു ഇത് യഥാർത്ഥത്തിൽ പോസിറ്റീവ് മാനസികാവസ്ഥ കാരണം ഉണ്ടാകുന്ന വിശ്വാസം ആണ് ഇത് ഒരു നല്ല നേതാവാകാൻ ഇത് നിങ്ങളെ സഹായിക്കും മാത്രവുമല്ല ഒരു നല്ല സംരംഭകനും എല്ലായ്പ്പോഴും റിസ്ക് എടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയും ആയിരിക്കും റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്ത ആൾക്ക് ഒരിക്കലും ഒന്നും നേടാൻ കഴിയില്ല പ്രശസ്ത മന ശാസ്ത്രജ്ഞരിൽ ഒരാളായ വില്യം ജെയിംസ് നൽകിയ ഒരു നിരീക്ഷണം നമ്മൾ പകുതി മാത്രമേ ഉണർന്നിട്ടു ഉള്ളൂ എന്നാണ് നമ്മളെല്ലാവരും പകുതി മാത്രമേ ഉണർന്നിട്ടുള്ളൂ നമ്മളുടെ ശരീരത്തിന്റെയും മനസിന്റെയും ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അറിയില്ല നിങ്ങൾ ഒരിക്കലും സ്വയം വിശകലനം ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വയം വിശകലനം ചെയ്യുകയുംസ്വയം വെളിപ്പെടുത്തുകയും വേണം നിങ്ങൾ സ്വയം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ കുറവുകൾക്കു നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും കാര്യം ശരിക്കും പറഞ്ഞാൽ മനുഷ്യർ അതിനകത്ത് ജീവിക്കുന്നു നിങ്ങളുടെ കുറവുകൾ നിങ്ങൾക്ക് ശരിക്കും അറിയാമോ നമ്മളിൽ മിക്കവരിലും യഥാർത്ഥത്തിൽ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ അത് വിശകലനം ചെയ്യാൻ പോയിട്ടില്ല ഒരു പുതുതായി വരുന്ന വ്യക്തിക്ക് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിവുണ്ടാകില്ല എന്നാൽ അവൻ യഥാർത്ഥത്തിൽ പോസിറ്റീവ് ആണെങ്കിൽ സ്വയം അതിനെ അഭിമുഖീകരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നു ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പോസിറ്റീവ് തിങ്കിംഗ് കാരണമുള്ള ഫലമാണ് ഇപ്പോൾ നിങ്ങൾ ഒരു ജോലിസ്ഥലത്ത് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണെന്ന് മനസിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് അന്തരിച്ച ഡോ എറിക് ബെർൺ Late Dr Eric Berne മനുഷ്യന്റെ പെരുമാറ്റത്തെയും മനുഷ്യനെയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു അദ്ദേഹം നാല് തരത്തിലുള്ള നിഗമനങ്ങളിൽ എത്തി ആദ്യത്തേത് ഞാൻ ശരിയല്ല നിങ്ങളും ശരിയല്ല എന്നത് ഒരു അന്തർമുകൻ പറയുന്ന വാക്കുകൾ ആണ് എല്ലായിപ്പോഴും അവനും മറ്റുള്ളവരും ശരിയല്ലെന്ന് അവൻ കരുതുന്നു ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും മുന്നോട്ടുപോകാൻ സാധിക്കില്ല മറ്റൊരു കൂട്ടർ പറയുന്നത് ഞാൻ ശരിയല്ല എന്നാൽ നിങ്ങൾ ശരിയാണ് എന്നും അത്തരക്കാർ നെഗറ്റീവ് ആണ് മൂന്നാമത്തെ തരത്തിൽ പെട്ടവർ പറയുന്നത് താൻ ശരിയാണെന്നും മറ്റുള്ളവർ ശരിയല്ലെന്നും ആണ് അത്തരക്കാർ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവരും താൻ ആണ് പ്രധാനം എന്നും മറ്റുള്ളവർക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്തവരും ആണ് നമ്മൾ ഇപ്പോൾ പല ടീമുകളിൽ പ്രവർത്തിക്കുകയും ടീമിൽ പ്രോജക്റ്റുകൾ കൈകാര്യം ചെയ്യുകയും വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ളവരുമായി പ്രവർത്തിക്കേണ്ട അസൈൻമെന്റുകൾ നേടുകയും ചെയ്യുന്നു അവരുടെ രാജ്യങ്ങൾ മാനസികാവസ്ഥ സ്വഭാവങ്ങൾ ശീലങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു സഹകരണ മനോഭാവമുള്ള ഒരു സിസ്റ്റം ചിന്താ പ്രക്രിയയിലൂടെ നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് അത് സാധ്യമാകുമ്പോൾ നമുക്കോ മറ്റുള്ളവർക്കോ കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും ഇത്തരത്തിലുള്ള ഒരാൾ പോസിറ്റീവ് മാത്രമല്ല നല്ല സഹകരണം ഉള്ള വ്യക്തിയും ആയിരിക്കും അത്തരമൊരു വ്യക്തിക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അവരുടെ ഗ്രൂപ്പിന് വിജയകരമായ ഫലങ്ങൾ നേടാനും അവയ്ക്കായി നേട്ടങ്ങൾ കൊണ്ടുവരാനും കഴിയും എല്ലാ മനുഷ്യരും പോസിറ്റീവ് ആയി ചോദിക്കുകയാണെങ്കിൽ അവർക്ക് മോശമായ സാഹചര്യത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവ് മനസുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ വ്യത്യസ്തമായ സാഹചര്യം ഒരു അവസരമാക്കി മാറ്റങ്ങൾ കൊണ്ടുവരാൻ വരാൻ സാധിക്കുകയുള്ളൂ വിജയം നേടാൻ നാമെല്ലാവരും ആഗ്രഹിക്കുകയും അത് നമ്മുടെ ദാഹവും വിശപ്പും എന്നതുപോലെ നമ്മളെ വേട്ടയാടുകയും ചെയ്യുന്നു പക്ഷേ എങ്ങനെ പോസിറ്റിവിസം വികസിപ്പിക്കാൻ കഴിയും എന്ന് നമുക്ക് മനസിലാക്കാൻ ശ്രമിക്കാം ഒരു നിയമനം ലഭിക്കുമ്പോൾ മിക്കപ്പോഴും അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് നിങ്ങൾ പലപ്പോഴും സംശയിക്കുന്നു എന്നാൽ സ്വയം വിശ്വസിക്കുക നിങ്ങൾ ധാരാളം കഴിവുള്ളവരാണ് നിങ്ങൾക്ക് വളരെയധികം സാധ്യതകളുണ്ട് നിങ്ങൾ സ്വയം കണ്ടെത്തുകയും സ്വയം വിശ്വസിക്കുകയും ചെയ്യുക മുമ്പത്തെ പ്രഭാഷണത്തിൽ ആളുകൾ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു പലപ്പോഴും പ്രശസ്തരായ മറ്റ് ആളുകളുടെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് അനുകരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഗുണങ്ങൾ മാത്രമേ നിങ്ങൾ അനുകരിക്കുകയുള്ളൂ എന്നാൽ ഒരു വ്യക്തി മറ്റൊരാളെ അനുകരിച്ച് മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും അയാൾക്ക് യഥാർത്ഥത്തിൽ സ്വന്തം പ്രാധാന്യം നഷ്ടപ്പെടും ശബ്ദം നല്ലതാണെങ്കിലും രൂപം അത്ര മെച്ചപ്പെട്ടതല്ലാത്ത ഒരു പ്രശസ്ത ഗായികയുടെ കഥ എനിക്ക് വളരെ ഓർമ്മയുണ്ട് അവൾ എല്ലായ്പ്പോഴും പല്ലുകൾ മറയ്ക്കാൻ ശ്രമിച്ചു തിരിച്ചെത്തിയപ്പോൾ അവൾക്ക് ശരിക്കും നിരാശ തോന്നി അവളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന സംവിധായകർ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് പല്ല് മറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ശബ്ദം മറയ്ക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു കഴിവുണ്ട് അതുമാത്രമാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം അതിനാൽ എപ്പോഴും നിങ്ങൾ നിങ്ങൾ മാത്രം ആയിരിക്കുവാൻ ശ്രമിക്കുക നിങ്ങളാണ് മികച്ചവനെന്ന് കരുതുക അതിനാൽ നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക തീർച്ചയായും എല്ലാവർക്കും എല്ലാത്തരം കഴിവുകളും ഉണ്ടായിരിക്കില്ല എന്നാൽ അതേ സമയം സാഹചര്യങ്ങളിലൂടെയും അവസരങ്ങളിലൂടെയും വ്യത്യസ്ത വെല്ലുവിളികൾ നേരിടുന്ന ഒരാൾക്ക് പലപ്പോഴും സ്വന്തം കഴിവുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും മറ്റുള്ളവരെ നിരീക്ഷിക്കുകയും അവരിൽനിന്ന് പഠിക്കുകയും ചെയ്യുന്നതു നല്ലതാണ് എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തംവ്യക്തിത്വം നഷ്ടപ്പെട്ടേക്കാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ചില നല്ല ഗുണങ്ങൾ അനുകരിക്കുക എന്നാൽ നിങ്ങളുടെ സ്വന്തം ഗുണങ്ങൾ നഷ്ടപ്പെടുത്തരുത് കാരണം എല്ലാ മനുഷ്യരിലും ചില പ്രത്യേക ഗുണങ്ങൾ ഉണ്ട് അവ എന്താണെന്ന് കണ്ടെത്തുക നിങ്ങൾ സ്വയം വെളിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ നിങ്ങൾക്ക് എന്തെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും അത് മറയ്ക്കാൻ ശ്രമിക്കുന്നതായി കാണാൻ കഴിയും എന്നാൽ ഓർക്കുക മനുഷ്യന് മാറാൻ കഴിയും റൂസ്വെൽറ്റ് എങ്ങനെ ദുർബലനായിരുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും യഥാർത്ഥത്തിൽ വളരെയധികം ഇടറിപ്പോയ ശബ്ദമായിരുന്നു പക്ഷേ പരിശീലനത്തിലൂടെ അദ്ദേഹം ഏറ്റവും വലിയ പ്രാസംഗികരിൽ ഒരാൾ ആയി നിങ്ങൾക്ക് വളരെയധികം സാധ്യതകളുണ്ട് ഒരേയൊരു കാര്യം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുടരുക എന്നതാണ് ശരിയായ ദിശയിലൂടെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലക്ഷ്യ സ്ഥാനത്ത് എത്തും ശരിയായ പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഗീതയിൽ പറയപ്പെടുന്നു ശരിയായ കർമ്മം ചെയ്യുക നിങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രവൃത്തി ചെയ്യുന്നയാൾ "കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചനാ" എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരണം നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളെ പിന്തുടരണം നിങ്ങൾ ശരിയായ പാത പിന്തുടരണം നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ സാധിക്കും നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു ജോലിസ്ഥലത്ത് ആയിരിക്കുമ്പോൾ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല അതുപോലെ പോലെ മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങൾക്കും അറിയില്ല എന്നാൽ ശരിയായ ഇടപെടൽ നടത്തുന്നതിനും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനും ഒപ്പം തൃപ്തികരമായ അസോസിയേഷൻ ലഭിക്കുന്നതിനും ഞാൻ പറഞ്ഞതുപോലെ വ്യത്യസ്ത അഭിരുചികളും ശീലങ്ങളും ഉള്ള ആളുകളുമായി നിങ്ങൾ ഒരു ഒരു ടീമിൽ പ്രവർത്തിക്കേണ്ടത് ആയി വരും ടീം അംഗങ്ങൾ പലപ്പോഴും വ്യത്യസ്തരാണ് അതിനാൽ നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെ സ്ഥാപിക്കാനാകും ആരുടേയും അറിവ് മറ്റുള്ളവരെ സമ്പന്നമാക്കും എന്നത് യഥാർത്ഥത്തിൽ ജോഹാരി വിൻഡോ നൽകിയ രണ്ട് പ്രശസ്ത സൈദ്ധാന്തികർ നന്നായി പഠിച്ചു മനസ്സിലാക്കിയ കാര്യമാണ് അമേരിക്കൻ മനശാസ്ത്രജ്ഞരായ ജോസഫ് ലുഫ്റ്റും ഹാരി ഇംഗ്ഹാമും ചേർന്ന് 1955 ൽ ആവിഷ്കരിച്ച പ്രക്രിയയാണിത് അവർ രണ്ടു വ്യക്തികൾ ഒരു തരം സ്ക്വാഡ് ചില വിൻഡോ പാനുകൾ എന്നിവ ഉപയോഗിച്ച് പ്രകടമാക്കിയത് ഇങ്ങനെയാണ് ഒരു പുതിയ വ്യക്തി ഒരു ഗ്രൂപ്പിൽ പ്രവേശിക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ അവൻറെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അപരിചിതമായ അവസ്ഥ കാരണം അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും മറ്റുള്ളവർ അറിയാതെ പോകും അവനും അതറിയില്ല എന്നാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഇടപെടൽ നടക്കുമ്പോൾ അത് പുതിയ അംഗത്തെ സ്വന്തം കഴിവുകൾ വെളിപ്പെടുത്താൻ സഹായിക്കുന്നതിനുള്ള ഗ്രൂപ്പ് അംഗങ്ങളുടെ ഉത്തരവാദിത്തം ആയി മാറുന്നു ഒപ്പം അതിനായി ഈ ജോഹാരി വിൻഡോ നിർദ്ദേശിച്ചു ജോഹാരി വിൻഡോയുടെ പ്രധാന പ്രവർത്തനംസ്വയം അവബോധം ചിത്രീകരിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക വിജയം കൈവരിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെനമ്മൾ നമ്മുടെ ചില പ്രധാന കഴിവുകൾ സ്വയം വെളിപ്പെടുത്തണം നമ്മൾ സ്വയം ബോധവാന്മാരാകണം നമുക്ക് നമ്മളെ കുറിച്ച് അറിയാത്ത ധാരാളം കാര്യങ്ങൾ ഉണ്ടാവും മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവും അതേസമയം നമുക്കോ മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങളും ഉണ്ടാവാം ജോഹാരി വിൻഡോ സ്വയം അവബോധം ചിത്രീകരിക്കുന്നതിനും പരസ്പര ധാരണ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു ഗ്രൂപ്പിനെ മറ്റ് ഗ്രൂപ്പുകളുമായുള്ള ബന്ധത്തിൻറെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിൽ ഒരു പടി മുന്നിട്ടു നിൽക്കുന്നു നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് വികസിപ്പിക്കുന്നതിൽ ഈ ജോഹാരി വിൻഡോസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു നമ്മളെ സ്വയം മനസ്സിലാക്കാനും സോഫ്റ്റ് സ്കിൽസ്ലൂടെ നമ്മളെ പരിശീലിപ്പിക്കാനും ഇത് ഉപകരിക്കും ഇതാണ് യഥാർത്ഥത്തിൽ ജോഹാരി വിൻഡോയുടെ ചിത്രം ഇതിനു യഥാർത്ഥത്തിൽ നാല് തലങ്ങളുണ്ട് ഒരു വ്യക്തി ഒരു പുതിയ ഗ്രൂപ്പിൽ ചേരുമ്പോൾ 4 ക്വാഡ്രന്റ് അല്ലെങ്കിൽ 4 പ്രദേശങ്ങള് എന്ന രീതിയിലുള്ള നാല് ഭാഗങ്ങളാണുള്ളത് അതായത് ആദ്യം ഒരാളുടെ തുറന്ന സമീപനം പിന്നെ അയാളുടെ അജ്ഞത അയാളിൽ മറഞ്ഞിരിക്കുന്നവ പിന്നെ അയാൾക്ക് അജ്ഞാതമായവ എന്നിങ്ങനെയാണ് ഇപ്പോൾ ഈ കഴിവുകൾ വെളിപ്പെടുത്തുന്നതിൽ ഈ ജോഹാരി വിൻഡോ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ആശയവിനിമയത്തിലൂടെയും ഫീഡ്ബാക്കിലൂടെയും ഇത് യഥാർത്ഥത്തിൽ തുറന്നുകാട്ടുന്നു അനുഭവങ്ങൾ വികാരങ്ങൾ കാഴ്ചകൾ മനോഭാവം കഴിവുകൾ ഉദ്ദേശ്യങ്ങൾ പ്രചോദനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോഹാരി വിൻഡോയിൽ ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ പുതിയ ഒരു വ്യക്തിയുമായി സംവദിക്കുന്നു അങ്ങനെ ആശയവിനിമയം പങ്കിടൽ ഫീഡ്ബാക്ക് മുതലായവ വഴി അവരുടെ ബന്ധം വികസിക്കുന്നു ഈ 4 കാഴ്ചപ്പാടുകൾ ക്വാഡ്രന്റുകൾ എന്നറിയപ്പെടുന്നു ഒരു വ്യക്തിയെപ്പറ്റി അയാൾക്കും മറ്റുള്ളവർക്കും അറിയാവുന്നതും അറിയാത്തതുമായ തോന്നലുകളേയും പ്രചോദനങ്ങളേയും ഇവ പ്രതിനിധീകരിക്കുന്നു ആദ്യത്തെ ക്വാഡ്രന്റ് അഥവാ ആദ്യത്തെ റീജിയൺ ഓപ്പൺ ഏരിയ എന്നറിയപ്പെടുന്നു ഈ ഏരിയയിൽ ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾക്ക് സ്വയം അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും അറിയാവുന്നതാണ് ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യമുള്ളതിനാൽ ഇപ്പോൾ ഈ ഏരിയ വികസിപ്പിക്കാൻ കഴിയും എന്നിട്ട് നമ്മുടെ ആക്ഷൻലൂടെയും നമുക്ക് കൂടുതൽ അറിയുവാൻ സാധിക്കുകയും സ്വയം സമ്പന്നൻ ആവുകയും ചെയ്യുന്നു അടുത്തത് ബ്ലൈൻഡ് ഏരിയ ആണ് ഇവിടെ ഒരു വ്യക്തിയുടെ യുടെ അജ്ഞതയാണ് കാണിക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അറിയുന്ന കാര്യങ്ങൾ അയാൾക്ക് സ്വയം അറിയില്ലായിരിക്കാം അത് ചില കുറവുകൾ കൊണ്ടായിരിക്കാം എന്നാൽ മറ്റുള്ളവർ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു അവസാനത്തേത് ഹിഡൻ ഏരിയ ആണ് ചില കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് അറിയാമെങ്കിലും മറ്റുള്ളവർക്ക് അറിയില്ല അവസാനത്തേത് ആ വ്യക്തിക്കും മറ്റുള്ളവർക്കും അജ്ഞാതമായ കാര്യമാണ് ഘട്ടം ഘട്ടമായി നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും ഓരോ വ്യക്തിക്കും ഒരു ഓപ്പൺ ഏരിയ വികസിപ്പിക്കുന്നതിന് ആദ്യ ഏരിയ സഹായിക്കുന്നു എനിക്ക് ചിലത് അറിയാം ഇപ്പോൾ എനിക്കെന്തെങ്കിലും അറിയാമെന്നതിനാൽ മറ്റുള്ളവരും അത് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അതേ സമയം ഓപ്പൺ ഏരിയയുടെ വലുപ്പം വെറ്ടിക്കല് ആയും ഹൊറിസോണ്ടല് ആയും ഫീഡ്ബാക്കിലൂടെയും സമ്പർക്കത്തിലൂടെയും വിപുലീകരിക്കാൻ കഴിയും വളരെ തുറന്ന പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വഴി ഓപ്പൺ ഏരിയ വികസിപ്പിക്കാവുന്നതാണ് ബ്ലൈൻഡ് ഏരിയയാണ് അടുത്തത് ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങൾ സ്വയം അറിഞ്ഞു കൂടാതെ വരുമ്പോഴാണ് ബ്ലൈൻഡ് ഏരിയ ഉണ്ടാകുന്നത് അത്തരം സാഹചര്യത്തിൽ ആ ഗ്രൂപ്പ് നന്നായി പ്രവർത്തിക്കാനായി ഈ വ്യക്തിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ചിലപ്പോൾ ഇത് ഒരുതരം വൈകാരിക അസ്വസ്ഥത സൃഷ്ടിച്ചേക്കാം ഇത് ഒരുതരം വൈകാരിക അസ്വസ്ഥത സൃഷ്ടിച്ചേക്കാം അതിനാൽ ഈ ഏരിയ വികസിപ്പിക്കുന്നതിന് അത് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന മാനേജർമാർക്ക് നോൺ ജഡ്ജ്മെന്റൽ ഫീഡ്ബാക്ക് നൽകാൻ കഴിയും മാത്രവുമല്ല അയാളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അയാളുടെ ഈ ഏരിയ അറിയപ്പെടണമെന്ന് മറ്റ് അംഗങ്ങളെയും അറിയിക്കുക എവിടെയാണ് കുറവുള്ളതെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും അടുത്തത് ഹിഡൻ സെൽഫ് ആണ് അത്തരമൊരു ഏരിയയിൽ നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ ജോലിസ്ഥലത്ത് മറ്റുള്ളവരിൽ നിന്നും നമ്മൾ മറച്ചു വയ്ക്കുന്നതായി കാണാം മറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടാകരുത് തീർച്ചയായും നിങ്ങളുടെ വർക്ക് ശൈലി നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങളുടെ ആത്മാർത്ഥത തുടങ്ങിയവയിൽ നിന്നെല്ലാം ഈ പ്രസക്തമായ ഹിഡൻ ഏരിയ നീക്കപ്പെടുകയും കൂടുതൽ വെളിപ്പെടുത്തലുകളിലൂടെ വിൻഡോ പാനുകൾ ഓപ്പൺ ഏരിയയിലേക്കു നീങ്ങിക്കൊണ്ടിരിക്കുകയും വേണം ഈ ഹിഡൻ ഏരിയ കുറയ്ക്കുന്നതിലൂടെ ഒരുതരം സഹകരണ വിശ്വാസ്യത ഉറപ്പുവരുത്തുകയും പഠനത്തിനു സഹായകരമാവുകയും ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും ഏതെങ്കിലും തരത്തിൽ പരസ്പരം എൻറിച്ചഡ് ആവുകയും അവർക്കു ഒരു പൊതു ആവശ്യത്തിനും പൊതു ലക്ഷ്യത്തിനുമായി പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ശരിയായ ഇടപെടലിലൂടെ മാത്രമേ അത് സാധ്യമാകൂ ഇപ്പോൾ ക്വാഡ്രന്റ് 4 എന്നത് അജ്ഞാതമായ മേഖലയാണ് ഈ മേഖലയിൽ പുതിയ വ്യക്തിക്കും മറ്റുള്ളവർക്കും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആണുള്ളത് കൂട്ടായി കാര്യങ്ങൾ അന്വേഷിച്ചു അനാവരണം ചെയ്യാനാകും പല കാര്യങ്ങളും അനാവരണം ചെയ്യാനാകുന്ന സാഹചര്യമാണിവിടെയുള്ളത് ഉദാഹരണത്തിന് എന്ത് വേണമെന്ന് തനിക്കോ മറ്റുള്ളവർക്കോ അറിഞ്ഞുകൂടാത്ത ഒരു ക്രിട്ടിക്കൽ മൊമെന്റ് ഉണ്ടാവാം അത്തരമൊരു സാഹചര്യത്തിൽ ചില പുതിയ കാര്യങ്ങൾ പുറത്തു വരികയും അത് വഴി നിങ്ങള്ക്ക് ഒരുതരം സെല്ഫ് ഡിസ്കവറി സാധ്യമാവുകയും ചെയ്യുന്നു തീർച്ചയായും അത് ചില സമയങ്ങളിൽ സെൻസിറ്റീവ് ആയിരിക്കാം മാത്രമല്ല ഈ ഏരിയ എത്രത്തോളം വിപുലമാണെന്നും സൂചിപ്പിക്കുന്നു അത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സ്വന്തം വിവേചനത്തെ ആശ്രയിച്ചിരിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ ഒരു പൊതുവായ ലക്ഷ്യത്തോടെയും കൂട്ടായ ലക്ഷ്യത്തോടെയും പ്രവർത്തിക്കുന്ന ഇൻബിൽറ്റ് തിരുത്തൽ സംവിധാനം ഉള്ള ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുമായി ഇടപഴകേണ്ടതായും ശരിയായ ഫീഡ്ബാക്കിലൂടെ പഠിക്കേണ്ടതായും അറിവ് നേടേണ്ടതായും മാനേജർസ് CEOs മുതലായവരുടെ സത്യസന്ധമായ ഫീഡ്ബാക്കിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും നമുക്ക് മറ്റു് ഗ്രൂപ്പ് മെമ്പേർസിനെ സഹായിക്കാൻ സാധിക്കുകയും എല്ലാവരും യോജിച്ചു ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാനും കഴിയുമെന്ന് നമുക്കറിയാം ഇപ്പോൾ അണ്നോണ് ഏര്യയിൽ ഞാൻ അവസാനം പറഞ്ഞതുപോലെ ചില അജ്ഞാതമായ ഘടകങ്ങളുണ്ട് അതായത് നിങ്ങളിൽ ചില കഴിവുകളുണ്ട് പക്ഷേ അവ ശരിയായി കണക്കാക്കപ്പെട്ടിട്ടില്ല അവ ശരിയായി കണ്ടെത്തപ്പെട്ടിട്ടുമില്ല ചിലപ്പോൾ underestimate ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം ചില സമയങ്ങളിൽ സ്വാഭാവികമായി ചില കഴിവുകളോ മനോഭാവമോ നമുക്കുണ്ടെന്നു പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ല ഒരുപക്ഷേ ഒരാൾ വളരെ നല്ല ഗായകനായിരിക്കാം പക്ഷേ അദ്ദേഹം ഒരിക്കലും അത്തരമൊരു സാഹചര്യം അഭിമുഖീകരിക്കുകയോ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല വളരെ നല്ല ശബ്ദമുണ്ടെന്ന് അയാൾക്കു പോലുമറിയില്ല എന്നാൽ പിന്നീട് ഒരു ഗ്രൂപ്പിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ സ്നേഹം കാരണമോ ഭയം കാരണമോ അയാൾ അത് വെളിപ്പെടുത്തുകയും ഒരു സെല്ഫ് അവേർനെസ് ഉണ്ടാവുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് അടിച്ചമർത്തൽ അല്ലെങ്കിൽ ഉപബോധമനസ്സിലുള്ള ഒരു തോന്നൽ കാരണമായിരിക്കാം അയാളിലുള്ള ഈ കഴിവ് വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ടത് എന്നാൽ ഒരു അവസരം ലഭിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒരാൾക്ക് പരസ്പര സഹകരണത്തിലൂടെ തന്റെ കഴിവുകൾ വെളിപ്പെടുത്താൻ കഴിയണം തീർച്ചയായും ചിലപ്പോൾ വ്യവസ്ഥാപരമായ പെരുമാറ്റം നമ്മുടെ ജീവിത രീതി നമ്മുടെ ശീലങ്ങൾ തുടങ്ങിയവ കാരണം പലപ്പോഴും മറഞ്ഞിരിക്കുന്ന നമ്മുടെ ചില കഴിവുകൾ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞെന്നു വരില്ല സുഹൃത്തുക്കളെ സ്വയം അവബോധത്തിലൂടെ ഒരു വ്യക്തിയുടെ കഴിവുകളും സ്വഭാവ സവിശേഷതകളും വെളിപ്പെടുത്താൻജോഹാരി വിൻഡോസിന് കഴിയുമെന്ന് ഈ ചർച്ചയിലൂടെ നമുക്കെല്ലാവർക്കുംമനസ്സിലായി മുമ്പത്തെ പ്രഭാഷണത്തിൽ സ്വയം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച് സംസാരിച്ചു നമ്മുടെ വ്യക്തിത്വത്തിന്റെ ചില ഗുണങ്ങളെ നമുക്ക് എങ്ങനെ ആശയവിനിമയത്തിലൂടെയും ആളുകളുമായുള്ള ബന്ധം വഴി ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെയും മാറ്റാൻ കഴിയും എന്ന് കണ്ടു നിങ്ങൾക്കറിയാമോ ഈ ലോകത്തു ഒന്നും സ്ഥിരമല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെത്തന്നെ മാറ്റാവുന്നതാണ് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാനും നല്ല ബന്ധവും ആശയ വിനിമയവും ഉറപ്പു വരുത്തുവാനും ജോഹാരി വിന്ഡോ നമ്മെ സഹായിക്കുന്നു നന്നായി സംസാരിക്കാൻ കഴിയില്ലെന്ന് കരുതുന്ന ചില ആൾകാർ ഉണ്ട് എന്നാൽ അവർ ഒരു ടീമിൽ ജോലി ചെയ്യുമ്പോൾ സ്വന്തം കുറവുകളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും മനസ്സിലാക്കുകയും തുടർന്ന് ശരിയായ ഇടപെടലിലൂടെയും പരസ്പര സഹകരണത്തിലൂടെയും അവർ മെച്ചപ്പെട്ട രീതിയിൽ സംസാരിക്കാൻ പഠിക്കുകയും ചെയ്യുന്നു പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ചെയ്യുന്നതെന്തും നിങ്ങൾ ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും അത് പ്രധാനമാണ് പക്ഷേ ധർമ്മപദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുക മനസ്സിലാക്കുക "നമ്മൾ എന്താണോ അത് നമ്മുടെ ചിന്തയുടെ ഫലമാണ് നിങ്ങൾ ആത്മാർത്ഥമായി പോസിറ്റീവ് ആയി ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങള്ക്ക് എല്ലായ്പ്പോഴും വിജയിക്കുവാൻ കഴിയും അസാധ്യമായിട്ടു ഒന്നും തന്നെയില്ല തങ്ങളിലുള്ള തിന്മയെ നേരിടുന്നതിനും പോരായ്മകളെ നികത്തുന്നതിനും മനുഷ്യർക്ക് മാത്രമേ കഴിയൂ അവർക്കു തങ്ങൾ യോഗ്യരും വിജയികളുമാണെന്നു സ്വയം തെളിയിക്കാൻ സാധിക്കും നല്ല അഭിലാഷ മൂല്യവും ശരിയായ പെരുമാറ്റവും ഉണ്ടെങ്കിൽ പോസിറ്റീവ് മാനസികാവസ്ഥയിലൂടെ വിജയത്തിൻറെ ഗോവണി കയറാമെന്ന് നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നു ഞാൻ കരുതുന്നു വളരെ നന്ദി